എല്ലാവര്ക്കും സ്വാഗതം നമ്മൾ സംസാരിക്കുന്നത് ദുരന്ത മോചനവും മികച്ച രീതിയിലുള്ള പുനർ നിര്മിതിയും എന്ന കോഴ്സിനെക്കുറിച്ചാണ് ക്യോട്ടോ സർവകലാശാലയിലെ ദുരന്ത നിവാരണ ഗവേഷണ സ്ഥാപനത്തിൽ നിന്നും ഡിപിആർഐ ഞാൻ സുഭജ്യോതി സമാദാർ ഈ പ്രഭാഷണത്തിൽ 3 ഘടകങ്ങൾ പരിഗണിച്ച് ദുരന്തസാധ്യതയെക്കുറിച്ച് സംസാരിക്കും ഒന്ന് ഹസാർഡ് എക്സ്പോഷർ വുൾനെറബിലിറ്റി എന്നിവയാണ് അതിനാൽ ചില ചെറിയ ഉദാഹരണങ്ങൾ നൽകും ദുരന്തസാധ്യതയുടെ പ്രധാന വശം നിർവചിക്കുന്നതിന് ചില സൈദ്ധാന്തിക ആശയങ്ങളുള്ള ചിത്രീകരണങ്ങൾ ഉത്തരാഖണ്ഡിലെ റൂർക്കിക്കടുത്തുള്ള സ്ഥലമാണിതെന്ന് നമുക്ക് ഊഹിക്കാം ഇത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിരിക്കാം ഇവിടെ വരുന്ന ആളുകൾ ഇപ്പോൾ ഒരു പർവത കിണറിലെ ഈ നിഗൂഢ കല്ല് കാണുന്നു ഈ സ്ലൈഡ് കണക്കിലെടുക്കുമ്പോൾ ഇത് അപകടകരമാണോ ഇത് ജനങ്ങൾക്ക് മാരകമായേക്കാമെന്ന് തോന്നുന്നു ഇത് ദുരന്തമോ ദുരന്ത അപായമോ ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇപ്പോൾ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എങ്ങനെ താഴ്വരയിൽ അവിടെ ജോലിചെയ്യുന്നു മുമ്പത്തേതിനേക്കാൾ കൂടുതൽ അപകടസാധ്യതയുള്ളതായി നിങ്ങൾ കണക്കാക്കണോ ഇപ്പോൾ അടുത്ത സ്ലൈഡ് നോക്കൂ അവിടെ മഴയുണ്ടെങ്കിൽ ഈ കല്ല് ഈ വ്യക്തിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ അതെ ഇത് അപകടസാധ്യതയാണെന്ന് നാം കരുതുന്നു പക്ഷേ മനുഷ്യരില്ലാത്ത ഒരു പർവതത്തിൽ ഈ കല്ല് കാട്ടിൽ പതിക്കുന്നതുപോലെയാണെങ്കിൽ നിങ്ങൾ അത് അപകടകരമാണെന്ന് കരുതുന്നുണ്ടോ ഒരു ദുരന്തം ഹിമാലയത്തിൽ നമുക്ക് ഹിമപാതവും മണ്ണിടിച്ചിലും ഉണ്ടെങ്കിൽ ഈ സംഭവങ്ങളെ ദുരന്തങ്ങളായി നാം കണക്കാക്കുന്നുണ്ടോ ഒരുപക്ഷേ അത് ഒരു വിദൂര പർവ്വതത്തിലല്ലെങ്കിലും ആളുകൾ അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ ആ മുകളിലേതിനേക്കാൾ സെറ്റിൽമെൻറുകൾ ഉണ്ട് ഏറ്റവും താഴെയുള്ളവയെ പരിഗണിക്കുകയാണെങ്കിൽ അത് മുകളിലുള്ളതിനേക്കാൾ അപകടസാധ്യതയുള്ളതാണ് ഒരുപക്ഷേ നമ്മൾ കൂടുതൽ ആശങ്കാകുലരാണ് കൂടുതൽ സെറ്റിൽമെന്റുകൾ അവിടെ ഉള്ളപ്പോൾ ഇത് സംഭവിക്കുകയാണെങ്കിൽ രാത്രി സമയത്ത് ഈ മണ്ണിടിച്ചിൽ ഈ മണ്ണിടിച്ചിൽ പകൽ സമയത്ത് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് വ്യത്യസ്ത ആശങ്കകളും അപകടസാധ്യത അളക്കുന്നതിനുള്ള വ്യത്യസ്ത വഴികളുമുണ്ട് അതിനാൽ ആളുകൾ അവിടെ ഉറങ്ങുന്നതിനാൽ രാത്രി സമയം കൂടുതൽ അപകടകരമാണെന്ന് നാം കണക്കാക്കി എന്നാൽ പകൽ സമയം ആളുകൾ അവരുടെ വീട്ടിൽ ഉറങ്ങുന്നില്ലെങ്കിലും അവർ പുറത്ത് ജോലിചെയ്യുന്നു അവർ അത്തരം അപകടസാധ്യതകളിലേക്ക് നയിക്കപ്പെടുന്നില്ല എന്നാൽ ഒരു നഗര പ്രദേശത്തെ ഒരു നഗര സ്ഥലത്ത് ഇതേ കാര്യം സംഭവിക്കുകയാണെങ്കിൽ എന്തുസംഭവിക്കും ഇത് അപകടകരമാണെന്ന് നാം കണക്കാക്കേണ്ടതുണ്ടോ കൂടുതൽ അപകടസാധ്യതയുള്ളതിനാൽ ഹസാർഡ് എക്സ്പോഷർ വുൾനെറബിലിറ്റി ഇവയുടെ അർത്ഥമെന്താണെന്നും ഈ 3 ഘടകങ്ങൾ നമ്മുടെ കാര്യത്തിൽ എങ്ങനെ അപകടസാധ്യത നിർവചിക്കുന്നുവെന്നും ഇത് ഒരുതരം ദുരന്തസാധ്യതയാണെന്നും വിശദീകരിക്കുന്നതിനാണ് ഞാൻ ഈ ചിത്രീകരണങ്ങൾ നൽകുന്നത് ഇവിടെ 3 രംഗങ്ങൾ ഉണ്ട് ഇടത് വശത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന 3 ചിത്രങ്ങൾ ആളുകൾ ഇല്ലാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു മണ്ണിടിച്ചിൽ സംഭവിച്ചു ജനവാസ കേന്ദ്രങ്ങളില്ല അതിനാൽ ഇത് മറ്റൊരു സ്ഥലത്ത് അപകടസാധ്യത കുറവാണെന്ന് കണക്കാക്കപ്പെടുന്നു പക്ഷേ ജനസാന്ദ്രതയേറിയ ജനവാസ കേന്ദ്രമല്ല മുമ്പത്തേതിനേക്കാൾ കൂടുതൽ അപകടസാധ്യതയോ വിനാശകരമോ ആണെന്ന് നാം കരുതുന്നു തീവ്ര വലതുഭാഗത്ത് ഒരു നഗരപ്രദേശമാണ് ദുരന്ത മണ്ണിടിച്ചിൽ സംഭവിക്കുകയും കൂടുതൽ അപകടങ്ങളും നഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇപ്പോൾ ഇത് അപകടസാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്നു നമുക്ക് മഴയുണ്ടെങ്കിൽ ഈ കല്ല് വീഴും കനത്ത മഴ അല്ലെങ്കിൽ ഭൂകമ്പമുണ്ടെങ്കിൽ അത് വന്ന് ഈ സ്ഥലത്ത് ഇടിക്കും അതിന് ചിലതരം അവസ്ഥകളുണ്ട് ഭാവിയിൽ ചില ഭീഷണികൾക്ക് കാരണമായേക്കാവുന്നതും വ്യത്യസ്ത ഉത്ഭവം ഉണ്ടാകുന്നതുമായ ചില ഒളിഞ്ഞിരിക്കുന്ന അവസ്ഥകൾ അത് ഭൂകമ്പമാകാം മണ്ണിടിച്ചിലാകാം കനത്ത മഴയാകാം അതിനാൽ അപകടം ഒരു ശാരീരിക സംഭവ പ്രതിഭാസമായി നിർവചിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഇത് ഭാവിയിലെ ഭീഷണികളെ പ്രതിനിധീകരിക്കുന്നതും വ്യത്യസ്ത ഉത്ഭവം ഉള്ളതുമായ ചില ഒളിഞ്ഞിരിക്കുന്ന അവസ്ഥകളുള്ള മനുഷ്യ പ്രവർത്തനമായിരിക്കാം മാത്രമല്ല ഇത് പരിക്ക് സ്വത്ത് കേടുപാടുകൾ സാമൂഹികവും സാമ്പത്തിക തകർച്ചയും പരിസ്ഥിതി നശീകരണവും അതിനാൽ ഭാവിയിൽ സംഭവിക്കാനിടയുള്ള ശാരീരിക സംഭവങ്ങൾക്കും പ്രതിഭാസങ്ങൾക്കും അല്ലെങ്കിൽ മനുഷ്യ പ്രവർത്തനത്തിനും കാരണമാകുന്ന അപകടം ചില ജീവൻ നഷ്ടപ്പെടാനും പരിക്ക് സ്വത്ത് തകരാറുകൾ സാമൂഹികവും സാമ്പത്തികവുമായ തടസ്സങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം കൂടാതെ ഇതിന് ഇനിപറയുന്നതുപോലുള്ള വ്യത്യസ്ത ഉറവിടങ്ങളുണ്ട് പ്രകൃതിദത്തമായ അപകടങ്ങളുണ്ട് പ്രകൃതിദത്ത പ്രക്രിയയിൽ നിന്നോ ജൈവമണ്ഡലത്തിൽ സംഭവിക്കുന്ന പ്രതിഭാസങ്ങളിൽ നിന്നോ നാശമുണ്ടാക്കുന്ന സംഭവങ്ങളുണ്ടാകാം പ്രകൃതിദുരന്തങ്ങളെ അവയുടെ ഭൌമശാസ്ത്ര ജല കാലാവസ്ഥാ ജൈവ ഉത്ഭവം അനുസരിച്ച് തരം തിരിക്കാം നമുക്ക് ഇവിടെ നോക്കാം നമ്മൾ സംസാരിക്കുന്നത് ഉത്ഭവത്തിലും പ്രതിഭാസങ്ങളിലുമാണ് ജലസ്രോതസ്സുകളുടെ അപകടസാധ്യതകളാണ് ഇതിന്റെ ഉത്ഭവം വെള്ളപ്പൊക്കം ഡെബ്രിസ് ആൻഡ് മഡ് ഫ്ലോസ് ട്രോപ്പിക്കൽ സൈക്ലോൺസ് കൊടുങ്കാറ്റ് കാറ്റ് മഴ മറ്റ് ശക്തമായ കൊടുങ്കാറ്റുകൾ മിന്നൽ എന്നിവയാണ് പ്രതിഭാസങ്ങൾ കൂടാതെ നമുക്ക് വരൾച്ച മരുഭൂമീകരണം കാട്ടു തീ ടെംപറേറ്റർ എക്സ്സ്ട്രീമിസ് മണൽക്കാറ്റ് എന്നിവയുണ്ട് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ മഞ്ഞുവീഴ്ചയുണ്ട് അതിനാൽ ഇവയെല്ലാം ജല കാലാവസ്ഥാ അപകടങ്ങളായി കണക്കാക്കപ്പെടുന്നു നമുക്ക് ഭൂമിശാസ്ത്രപരമായ അപകടങ്ങളും ഉണ്ട് ഇവ സ്വാഭാവിക ഭൌമ പ്രക്രിയ അല്ലെങ്കിൽ പ്രതിഭാസങ്ങളായി കണക്കാക്കപ്പെടുന്നു അവ എൻഡോജെനസ് ഉത്ഭവ പ്രക്രിയകൾ അല്ലെങ്കിൽ ടെക്റ്റോണിക് അല്ലെങ്കിൽ എക്സ് സൊജൻസ് ചലനം പോലുള്ള മാസ്സ് മൂവ്മെൻറ് എന്നിവ ഉൾക്കൊള്ളുന്നു നമുക്ക് ഭൂമിശാസ്ത്രപരമായ അപകടങ്ങളുടെ പ്രതിഭാസങ്ങൾ നോക്കാം ഭൂകമ്പം സുനാമി അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ എമിഷൻസ് ഉപരിതല തകർച്ച ഭൂമിശാസ്ത്രപരമായ തകരാറുകൾ മാസ്സ് മൂവ്മെൻറ് മണ്ണിടിച്ചിൽ റോക്ക് സ്ലൈഡുകൾ ദ്രവീകരണങ്ങൾ ഇവയെല്ലാം ഭൂമിശാസ്ത്രപരമായ അപകടങ്ങളായി കണക്കാക്കപ്പെടുന്നു പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ ചിലതരം മൃഗങ്ങളുടെ മലിനീകരണം അല്ലെങ്കിൽ വ്യാപകമായ പകർച്ചവ്യാധികൾ എന്നിവപോലുള്ള ജൈവശാസ്ത്രപരമായ അപകടങ്ങളും നമുക്കുണ്ട് ഇവ ജൈവിക അപകടങ്ങളായി കണക്കാക്കപ്പെടുന്നു നമ്മളും ഇവിടെ വലിയ ബന്ധമുള്ളവരല്ല പക്ഷേ ചില സാങ്കേതിക അപകടങ്ങൾ ദുരന്തങ്ങളിലൂടെയും ചില പാരിസ്ഥിതിക തകർച്ചകളിലൂടെയും സംഭവിക്കാനിടയുണ്ട് ഒരു ഭൂകമ്പമോ എണ്ണ ശുദ്ധീകരണശാല ചൂടാക്കലോ പോലുള്ള സാങ്കേതിക അപകടങ്ങളുടെ കാര്യത്തിൽ ഇത് സാങ്കേതിക അപകടങ്ങൾക്കും കാരണമാകും അല്ലെങ്കിൽ കനത്ത ലോഹങ്ങൾ അപകടകരമായ വസ്തുക്കൾ എന്നിവയ്ക്ക് വിധേയരാകുകയാണെങ്കിൽപ്പോലും ഇത് സാങ്കേതിക അപകടങ്ങളായി കണക്കാക്കണം അതുപോലെ നമുക്ക് പാരിസ്ഥിതിക തകർച്ചയുണ്ട് ഇവയെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നില്ല എന്നാൽ വിവിധ തരം പ്രകൃതിദുരന്തങ്ങളിലെ അപകടങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഹ്രസ്വ ആശയം നൽകുന്നതാണ് ഇവിടെ പ്രകൃതിദുരന്തങ്ങളുടെ വിതരണം കാണിക്കുന്ന മാപ്പാണിത് ഇവയെക്കുറിച്ച് കൂടുതൽ മാപ്പുകൾ നമുക്ക് നോക്കാം 1975 മുതൽ 2001 വരെയുള്ള രാജ്യങ്ങളും വിവിധ തരത്തിലുള്ള പ്രതിഭാസങ്ങളും അനുസരിച്ച് പ്രകൃതി ദുരന്തങ്ങളുടെ വിതരണമാണിത് ഈ വിതരണം പരിശോധിച്ചാൽ വെള്ളപ്പൊക്കം നിങ്ങൾക്ക് കാണാൻ കഴിയും 1975 മുതൽ 2001 വരെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദുരന്തങ്ങളിൽ ഒന്നാണിത് അടുത്ത സ്ലൈഡിലേക്ക് പോകുക വിവിധ രാജ്യങ്ങളിലെ ദുരന്ത വിതരണങ്ങൾ വ്യത്യസ്ത തരം ദുരന്തങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ എന്നിവ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടവരും കൊല്ലപ്പെട്ടവരും കുറഞ്ഞ വരുമാനമുള്ള രാജ്യങ്ങളിലും ഏറ്റവും കുറവ് ബാധിക്കപ്പെട്ടവരും കൊല്ലപ്പെട്ടവരും ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളിലുമാണ് അതിനാൽ ദരിദ്ര രാജ്യങ്ങൾ ദരിദ്ര സമുദായങ്ങൾ ദരിദ്ര സമൂഹങ്ങൾ സമ്പന്നമായ വികസിത രാജ്യങ്ങളെയും സമൂഹങ്ങളെയും അപേക്ഷിച്ച് അവർ കൂടുതൽ ദുരന്തങ്ങളാൽ ബാധിക്കപ്പെടുന്നു താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ ഭൂരിഭാഗവും വരൾച്ചയെയും അവരുടെ വെള്ളപ്പൊക്കത്തെയും ബാധിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇവ കൂടുതലും വെള്ളപ്പൊക്കത്തെ ബാധിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും മറ്റ് വലിയ സംഭാവന മനുഷ്യനഷ്ടം വെള്ളപ്പൊക്കത്തിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും സംഭവിച്ചു ഇപ്പോൾ അപകടങ്ങൾ നാം അപകടങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദുരന്ത മോചനവും ദുരന്ത നിവാരണ മാനേജ്മെന്റിനെക്കുറിച്ചോ disaster risk management സംസാരിക്കുമ്പോൾ അപകടങ്ങളുടെ ചില സവിശേഷതകൾ നാം പരിഗണിക്കേണ്ടതുണ്ട് ഒന്ന് അപകടങ്ങളുടെ ആവൃത്തി എത്രതവണ സംഭവിക്കാൻ സാധ്യതയുണ്ട് തുടർന്ന് അപകടത്തിന്റെ കാലാവധി അത് സംഭവിച്ച സമയത്തിന്റെ ദൈർഘ്യം എത്രത്തോളം തുടർന്നു ഒരു പരിധി അത് നടന്ന പ്രദേശത്തിന്റെ വലുപ്പം അത് ഒരു ഗ്രാമത്തിലോ പട്ടണത്തിലോ ആണ് എത്രത്തോളം ഏത് ഭൂമിശാസ്ത്രപരമായ പ്രദേശമാണ് ഇത് ഉൾക്കൊള്ളുന്നത് ഇവ ദുരന്തസാധ്യതാ മാനേജ്മെൻറ് കൈകാര്യം ചെയ്യുന്ന അപകടങ്ങളുടെ പ്രധാന ഘടകങ്ങളാണ് ഇപ്പോൾ മറ്റൊരു പ്രധാന സവിശേഷത വരുന്നത് ആരംഭിക്കുന്ന വേഗതയാണ് നമ്മൾ ഒരു വെള്ളപ്പൊക്കം പരിഗണിക്കുകയാണെങ്കിൽ അത് ഒരു ഫ്ലാഷ് ഫ്ലഡ് മുന്നറിയിപ്പില്ലാതെ വളരെ പെട്ടെന്നാണ് വളരെ വേഗം അല്ലെങ്കിൽ ഇത് ചുഴലിക്കാറ്റിന്റെ കാര്യത്തിലെന്നപോലെ മന്ദഗതിയിലുള്ള പ്രക്രിയയാണോ അങ്ങനെ പ്രവചിക്കാൻ വളരെയധികം സമയം നമുക്കുണ്ട് നമുക്ക് സ്വയം തയ്യാറാക്കാം നമുക്ക് നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനമുണ്ട് നമുക്ക് സമയമുണ്ടാകും പക്ഷേ ഭൂകമ്പത്തിന്റെ കാര്യത്തിൽ നമുക്ക് സമയമില്ല ഇത് വളരെ പെട്ടെന്നാണ് അല്ലെങ്കിൽ ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടായാൽ നമുക്ക് വളരെ കുറച്ചു സമയം മാത്രമേ ഉണ്ടാവുകയുള്ളു മറ്റു വെള്ളപൊക്കത്തിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ആരംഭിക്കുന്ന വേഗത വളരെ പ്രധാനമാണ് കൂടാതെ നിങ്ങൾ ദുരന്ത നിവാരണ മാനേജ്മെന്റിന്റെ അപകടസാധ്യതകളും സ്പേഷ്യൽ ഡിസ്പെർഷൻ പരിഗണിക്കുമ്പോൾ പ്രത്യേക ഇവന്റ് ബാധിച്ചേക്കാവുന്ന പ്രദേശം താൽക്കാലിക അകലവും വളരെ പ്രധാനമാണ് ഏത് സമയത്താണ് എപ്പോൾ സംഭവിക്കുന്നു അവ ക്രമരഹിതമാണോ അവ ആവർത്തിച്ചുള്ള പ്രക്രിയയിൽ ഒരു ചാക്രിക പ്രക്രിയയിൽ സംഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവ ഒറ്റത്തവണ സംഭവങ്ങളാണ് അതിനാൽ അപകടങ്ങളുമായി ഇടപെടുമ്പോൾ ഇവ പ്രധാന സവിശേഷതകളാണ് ഒരു ഉദാഹരണത്തിനായി മാത്രം ഒരുപക്ഷേ ഭൂകമ്പത്തിന്റെ കാര്യത്തിൽ നമുക്ക് അത് കാണാൻ കഴിയും ഭൂമിയുടെ പുറംതോടിന്റെ ടെക്റ്റോണിക് ഫലകങ്ങളുടെ 9tectonic plates അതിരുകളിലാണ് ഭൂകമ്പം ഉണ്ടാകുന്നത് ഇത് ഒരു അപകടമാണ് ഇത് അപകടങ്ങളുടെ ഉറവിടമാകുമ്പോൾ ഇത് സംഭവിക്കുകയും ഇത് സംഭവിക്കുകയും ചെയ്യുമ്പോൾ ഈ പ്ലേറ്റുകൾ പരസ്പരം സമ്പർക്കം പുലർത്തുകയും സമ്മർദ്ദം ഒരു ഭൂകമ്പം ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഇത് കേവലം ഒരു ശാരീരിക സംഭവമാണ് ചില സ്ഥലങ്ങളിൽ ടെക്റ്റോണിക് പ്ലേറ്റുകളുടെ വിതരണവും ഈ അപകടവും നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഭൂകമ്പ അപകടത്തിൽ നമുക്ക് 3 പ്രക്രിയകളുണ്ട് ഈ അപകടത്തിന് കാരണമാകുന്ന ശാരീരിക പ്രക്രിയ അതിലൊന്നാണ് ഒത്തു ചേരുന്ന അതിരുകൾൾ രണ്ട് പ്ലേറ്റുകൾ പരസ്പരം കൂട്ടിമുട്ടിയപ്പോൾ ഇത് ഹിമാലയൻ പർവതത്തെ സൃഷ്ടിച്ചു അതിനാൽ രണ്ട് പ്ലേറ്റുകൾ പരസ്പരം കൂട്ടിയിടിക്കുമ്പോൾ സംഭവിക്കാവുന്ന ഭൂകമ്പത്തിന്റെ ഒരു വഴി മറ്റൊന്ന് സബ്ഡക്ഷനുകൾ ഒരു ഓഷ്യാനിക് പ്ലേറ്റ് ലാൻഡ് പ്ലേറ്റിനടിയിൽ പോയി ഇത്തരത്തിലുള്ള ഭൂകമ്പം സൃഷ്ടിക്കുമ്പോൾ മറ്റൊന്ന് വ്യത്യസ്തമാണ് രണ്ട് പ്ലേറ്റുകൾ പരസ്പരം നീങ്ങുമ്പോൾ ഇതും ഭൂകമ്പത്തിന് കാരണമാകും ഇതിനെ നാം ഡൈവേർജന്റ് റീജിയൺ എന്ന് വിളിക്കുന്നു ഇപ്പോൾ നമ്മൾ അപകടങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് അപകടം ഒഴിവാക്കാൻ കഴിയുമോ ഇല്ല ചരിത്രപരമായി അപകടങ്ങൾ ഉണ്ടായിരുന്നു അത് അവിടെയുണ്ട് അത് നിലനിൽക്കും അതിനാൽ അടിസ്ഥാനപരമായി നമുക്ക് അപകടം ഒഴിവാക്കാൻ കഴിയില്ല ഇപ്പോൾ ദുരന്തത്തിലേക്ക് നോക്കുക 1980 മുതൽ 2005 വരെയുള്ള ദുരന്തങ്ങളുടെ എണ്ണം ഞാൻ മുമ്പു പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നോക്കാം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിനാശകരമായ സംഭവമാണ് വെള്ളപ്പൊക്കം 1980 മുതൽ 2005 വരെയുള്ള ദുരന്തങ്ങളിൽ 35 വെള്ളപ്പൊക്ക ദുരന്തങ്ങളാണ് മറ്റൊന്ന് വലിയൊരു പങ്ക് കൊടുങ്കാറ്റാണ് ഭൂകമ്പം 11 മാത്രമാണ് ഉയർന്ന താപനില 11 ആണ് അതിനാൽ മൊത്തത്തിൽ 90 ദുരന്തങ്ങളും ജല കാലാവസ്ഥാ ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അത് വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലാണ് 1980 മുതൽ 2005 വരെ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെടുന്നതിന്റെ 70 ജല കാലാവസ്ഥാ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് കാണാൻ കഴിയും അതിനാൽ ജല കാലാവസ്ഥാ ദുരന്തങ്ങൾ വളരെ നിർണായകമാണ് പ്രത്യേകിച്ചും നമ്മൾ വികസ്വര രാജ്യങ്ങളിലേക്കോ അവികസിത രാജ്യങ്ങളിലേക്കോ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 28 വരൾച്ചയാണ് മനുഷ്യന്റെ നഷ്ടത്തിന് കാരണം 28 അതുപോലെ വെള്ളപ്പൊക്കം 9 ഭൂകമ്പം 14 മാത്രമാണ് 1980 മുതൽ 2005 വരെയുള്ള പ്രകൃതിദുരന്തങ്ങളുടെ പ്രാദേശിക വിതരണം ഇവിടെയുണ്ട് ഏഷ്യയാണ് ഏറ്റവും വലിയ ദുരന്ത സ്രോതസ്സെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും മറ്റേതൊരു പ്രദേശത്തെയും അപേക്ഷിച്ച് ഇത് ഒരു ഹോട്ട്സ്പോട്ടാണ് ഞങ്ങൾ ദുരന്തങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജല കാലാവസ്ഥാ പ്രത്യേകിച്ചും വെള്ളപ്പൊക്കവും വരൾച്ചയും എല്ലാ ദുരന്തങ്ങളുടെയും വലിയൊരു പങ്ക് വഹിക്കുന്നു 1991 മുതൽ 2002 വരെയുള്ള ദുരന്തങ്ങളുടെ വളർച്ചയും ഇവിടെ കാണാം അതിനാൽ യഥാർത്ഥത്തിൽ ഇത് എല്ലാ ഭൂഖണ്ഡങ്ങളിലും പ്രത്യേകിച്ചും ഏഷ്യയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ 1990 കളിലും 2002 ലും ഏഷ്യയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ദുരന്തങ്ങൾ യഥാർത്ഥത്തിൽ കൂടുതൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും കൂടുതൽ കൂടുതൽ മനുഷ്യനഷ്ടങ്ങളും സ്വത്ത് നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു 1950 മുതൽ 2005 വരെ നിങ്ങൾക്ക് കാണാനാകുന്ന മറ്റൊരു ചാർട്ട് ഇവിടെയുണ്ട് വെള്ളപ്പൊക്കം വർദ്ധിക്കുന്ന സംഭവങ്ങളുടെ എണ്ണം കൊടുങ്കാറ്റും കൂടുന്നു ഭൂകമ്പം 1950 മുതൽ 2005 വരെ ഏതാണ്ട് തുല്യമാണ് നിങ്ങൾക്ക് വലിയ വ്യത്യാസങ്ങൾ കാണാൻ കഴിയില്ല പക്ഷേ മറ്റ് ദുരന്തങ്ങൾ അവ വളരെ പ്രാധാന്യത്തോടെ വർദ്ധിക്കുന്നത് കാണാൻ കഴിയും അതിനാൽ ഈ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ കല്ല് കനത്ത മഴയോ ഭൂകമ്പമോ നേരിടുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യന് പരിക്കേൽക്കുകയോ നഷ്ടപ്പെടുകയോ വസ്തുവകകൾ നശിപ്പിക്കുകയോ ചെയ്യുന്നതിന് ഇതിന് ചില സാധ്യതകളുണ്ട് അത് കാരണമാകാം അത് കാരണമാകുമെന്ന് നിർബന്ധമില്ല ഇപ്പോൾ ഹിമാലയത്തിൽ നമുക്ക് ഹിമപാതമുണ്ടെന്നും മണ്ണിടിച്ചിലുണ്ടെന്നും ഞാൻ പറഞ്ഞതുപോലെ ഹിമാലയത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായാൽ എന്തുകൊണ്ടാണ് നാം ഇത് ശ്രദ്ധിക്കാത്തത് ഒരു ഹിമപാതമുണ്ടെങ്കിൽ നമ്മൾ അത് കാര്യമാക്കുന്നില്ല എന്തുകൊണ്ട് നമ്മൾ ദുരന്ത നിവാരണ മാനേജ്മെന്റിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് പ്രധാനമാണ് മുംബൈയിൽ ഒരു മണ്ണിടിച്ചിൽ ദില്ലിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായാൽ നമ്മൾ ആശങ്കാകുലരാണ് പക്ഷേ ഹിമാലയത്തിൽ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നില്ല ആഴക്കടലിൽ ഭൂകമ്പമുണ്ടാകുമ്പോൾ നമ്മൾ അതുവരെ വളരെയധികം ആശങ്കപ്പെടുന്നില്ല പ്രധാന ഭൂപ്രദേശത്ത് സുനാമി വരുന്നതുവരെ അതിനാൽ ഇപ്പോൾ ഇത് തരിശുഭൂമിയോ വനമോ അല്ല ചില ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇത് പോലെ മഴ കാരണം ഈ മഴയ്ക്ക് കാരണമാകാം ഈ മണ്ണിടിച്ചിൽ സംഭവിക്കുകയും അത് ഈ വ്യക്തിയെ ബാധിക്കുകയും അയാൾക്ക് പരിക്കേൽക്കുകയും സ്വത്ത് നഷ്ടം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അതെ ഇപ്പോൾ നമുക്ക് ആശങ്കയുണ്ട് കാരണം ഈ വ്യക്തി അവിടെയുണ്ട് മുമ്പ് അവൻ അവിടെ ഉണ്ടായിരുന്നില്ല അതിനാൽ ഈ വ്യക്തിയുടെ സാന്നിധ്യം വളരെ പ്രധാനമാണ് ഇത് ഈ വ്യക്തി മാത്രമല്ല കൂടുതൽ സെറ്റിൽമെന്റുകൾ കൂടുതൽ വീടുകൾ കൂടുതൽ ആളുകൾ നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളാണെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾ ഇവിടെ കാണുന്നു നമ്മൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു ലളിതമായ കാരണം കൂടുതൽ കൂടുതൽ ആളുകളും വാസസ്ഥലങ്ങളും വീടുകളും കെട്ടിടങ്ങളും ഉണ്ട് ഇതിനെ നാം എക്സ്പോഷർ എന്ന് വിളിക്കുന്നു ആളുകളുടെ അവസ്ഥ അടിസ്ഥാന സൌകര്യങ്ങൾ പാർപ്പിടം ഉൽപാദന ശേഷി അപകടസാധ്യതയുള്ള പ്രദേശങ്ങളിൽ സ്ഥിതിചെയ്യുന്ന മറ്റ് മനുഷ്യ സ്വത്തുക്കൾ അതിനാൽ ഈ ആളുകൾ ഈ വീടുകൾ ഇല്ലെങ്കിൽ അപകടകരമായ ദുരന്തങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അവ അപകടകരമാണെന്ന് നാം കണക്കാക്കുന്നില്ല ഈ മണ്ണിടിച്ചിലിനെ അപകടസാധ്യതയുള്ളതായി നാം കണക്കാക്കുന്നു കാരണം ആളുകൾ സ്വത്ത് കെട്ടിടങ്ങൾ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ ആ അപകടത്തിന് വിധേയമാകുന്നു അതിനാൽ എത്രപേർ അപകടത്തിന് വിധേയരാകുന്നു ആരാണ് അപകടത്തിന് വിധേയരാകുന്നത് ദുരന്തസാധ്യതാ മാനേജുമെന്റിൽ ഇവ പ്രധാനമാണ് അതിനാൽ ഞങ്ങൾ എക്സ്പോഷറിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നഗരത്തിന്റെ വലുപ്പമോ സെറ്റിൽമെന്റുകളോ ഈ അപകടം നടക്കുന്ന സ്ഥലമോ എക്സ്പോഷറിന്റെ ഒരു പ്രധാന ഘടകമാണ് മറ്റൊന്ന് അളവാണ് എത്ര ആളുകളോ കെട്ടിടങ്ങളോ അപകടത്തിന് വിധേയമാകുന്നു മറ്റൊന്ന് അവ പിന്തുണയ്ക്കുന്ന പ്രവർത്തനങ്ങളുടെ അളവും തരവുമാണ് അവർ കാർഷിക മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവർ ബിസിനസ്സ് മേഖലയിലോ വ്യാവസായിക മേഖലയിലോ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് വ്യത്യസ്ത എക്സ്പോഷർ ആണ് ഉള്ളത് അവർ ഒരു വ്യാവസായിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ ചെറിയ സ്വത്തുക്കൾ അപകടങ്ങൾക്ക് വിധേയമാണ് കാർഷിക മേഖലകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വൈവിധ്യമാർന്ന തൊഴിലുകളുള്ള ഒരു നഗര പ്രദേശങ്ങളിലും ജനസാന്ദ്രത കൂടുതലായിരിക്കും ഗ്രാമപ്രദേശങ്ങളെ അപേക്ഷിച്ച് അവരുടെ സ്വത്തും കേന്ദ്രീകരിച്ചിരിക്കുന്നു അതിനാൽ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുക വിവിധതരം പ്രവർത്തനങ്ങൾ എന്നിവ ഉണ്ടാകും ഒരു പ്രത്യേക അപകടത്തിന് ആളുകൾ എത്ര എത്രത്തോളം വിധേയരാകുന്നുവെന്നും ഇവ നിർവചിക്കുന്നു ആളുകൾ ജോലി ചെയ്യാത്തപ്പോൾ ആളുകൾ പുറത്ത് ജോലിചെയ്യുമ്പോൾ ആളുകൾ അവരുടെ വീട്ടിൽ ഇല്ലാതിരിക്കുമ്പോൾ പകൽ സമയത്ത് ഈ അപകടം സംഭവിക്കുമെന്നതും പ്രശ്നമാണ് അല്ലെങ്കിൽ ആളുകൾ ഉറങ്ങുമ്പോൾ രാത്രി സമയം തീർച്ചയായും പകൽ സമയങ്ങളിൽ രാത്രി സമയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആളുകൾക്ക് അപകടസാധ്യത കുറവാണ് രാത്രി സമയങ്ങളിൽ ആളുകൾ ഉറങ്ങുന്നു അപകടകരമായ പ്രദേശങ്ങളോട് വളരെ അടുത്താണ് അതിനാൽ അവർ കൂടുതൽ അപകടത്തിന് വിധേയമാകുന്നു ഈ അപകടങ്ങൾ ഗ്രാമപ്രദേശങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ നഗരങ്ങളുടെ കാര്യത്തിൽ നഗരമേഖലയിലാണെങ്കിൽ ഒരു ചെറിയ ഗ്രാമവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ അതെ കൂടുതൽ കൂടുതൽ ആളുകളും സ്വത്തുക്കളും അപകടത്തിന് വിധേയമാകുന്നു അതിനാൽ നാം എക്സ്പോഷറിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപക്ഷേ ഇവ സൂചകങ്ങളായിരിക്കാം എത്ര എത്രത്തോളം ആരാണ് അപകടത്തിന് വിധേയമാകുന്നതെന്ന് നമുക്ക് നിർവചിക്കാം കെട്ടിട ഉപയോഗം വാസയോഗ്യമായ വാണിജ്യ വ്യാവസായിക എത്ര ആളുകൾ എത്രത്തോളം ഏത് തരം ആളുകൾ എന്നിവ ദുരന്തങ്ങൾക്ക് വിധേയരാകുന്നുവെന്ന് അവർ നിർവചിക്കുന്നു കൂടാതെ കെട്ടിടങ്ങളുടെ തരങ്ങൾ നിർമ്മാണ തരം അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ ഉയരം അവയെല്ലാം ഉയരമുള്ള കെട്ടിടമാണെങ്കിൽ കൂടുതൽ ആളുകൾ അപകടങ്ങൾക്ക് വിധേയരാകുന്നു അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ അരികിലോ കെട്ടിടങ്ങളുടെ ബിൽറ്റ് അപ്പ് ഫ്ലോർ ഏരിയകളിലോ ആണ് അതിനാൽ ഇത് ഒക്യുപൻസി വിശദാംശങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഈ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും ഉടമകളുടെ വിവരങ്ങൾ ശേഖരിക്കണം ജനസംഖ്യാ സാന്ദ്രത പോലെ നാം എടുക്കണം അതിനാൽ അപകടങ്ങൾക്ക് വിധേയമാണ് അത് എത്ര ആളുകളെയും കെട്ടിടങ്ങളെയും അപകടത്തിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇപ്പോൾ നാം അപകടത്തെക്കുറിച്ചും എക്സ്പോഷറിനെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ഈ ദുരന്തത്തിന് വളരെയധികം ആളുകൾ വിധേയരാകുന്നു ഒരു ദുരന്തത്തെ നിർവചിക്കാൻ ഇത് മാത്രം മതിയോ ശരി ഇത്രയധികം ആളുകൾ ഒരു മണ്ണിടിച്ചിലിന് ഒരു പ്രത്യേക അപകടത്തിന് വിധേയമാണ് എന്ന് നാം പറയുമ്പോൾ ആപത്തും എക്സ്പോഷറും അവ ഡിഗ്രിയും വിവിധതരം ദുരന്തങ്ങളും തീരുമാനിക്കുമെന്ന് നമുക്ക് പറയാനാകുമോ ആ അപകടത്തെ ഗുണിച്ചാൽ ഉദ്ധരിക്കാൻ മതിയായ നിർവചനം ഉണ്ടോ എക്സ്പോഷർ ദുരന്തത്തിന്റെ വ്യാപ്തിയോ ദുരന്തത്തിന്റെ അളവോ തീരുമാനിക്കുമോ ഇതുപോലെ എത്ര ആളുകൾ എത്ര കെട്ടിടങ്ങൾ അപകടങ്ങൾക്ക് വിധേയമാടുകുന്നുവെന്നത് മാത്രമല്ല അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും അവർ എത്രത്തോളം അപകടസാധ്യതയിലാണെന്നും നിർവചിക്കുന്നു മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരുപക്ഷേ ഈ ഗ്രാമത്തിൽ അവിടെ താമസിക്കുന്ന എല്ലാവരും വൃദ്ധരാണ് 65 വയസ്സിനു മുകളിലുള്ള മുതിർന്ന പൌരന്മാർ അതിനാൽ മുതിർന്ന പൌരന്മാർ അല്ലെങ്കിൽ കുട്ടികൾ മാത്രമാണുള്ളതെങ്കിൽ അവർ കൂടുതൽ ദുർബലരും കൂടുതൽ അപകടസാധ്യതയുള്ളവരുമാണെങ്കിൽ ഈ സ്ഥലം കൂടുതൽ അപകടസാധ്യതയുള്ളതാണെന്ന് നമ്മൾ കരുതുന്നു അതിനാൽ ചെറുപ്പക്കാർ കുറവാണ് ഒരു സമൂഹത്തിൽ വൃദ്ധർ മാത്രമാണുള്ളത് ചെറുപ്പക്കാരില്ലെങ്കിൽ കൂടുതൽ യുവജനസംഖ്യയുള്ള ഒരു കമ്മ്യൂണിറ്റിയേക്കാൾ ഈ കമ്മ്യൂണിറ്റി അപകടത്തിലാണെന്ന് നമ്മൾ കണക്കാക്കുന്നു അല്ലെങ്കിൽ അപകടത്തിനു വിധേയമാകപ്പെടുന്ന ആളുകൾ ദരിദ്രർ മാത്രമാണെങ്കിൽ അവർ കൂടുതൽ അപകടസാധ്യതയുള്ളവരാണ് അവർ കൂടുതൽ ദുർബലരാണ് മികച്ച സാമ്പത്തിക ശേഷിയുള്ള സമ്പന്നരായ ആളുകൾ ആണെങ്കിൽ അവർ അപകടസാധ്യത കുറവാണെന്ന് നാം കണക്കാക്കുന്നു ഇത് ഏതുതരം വീടുകളോ കെട്ടിടങ്ങളോ പോലെയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു കച്ച വീടുകളും മഡ് വീടുകളും കോൺക്രീറ്റ് വീടുകളും concrete houses മരം വീടുകളും ഉണ്ട് ഇവയും ഒരു പരിധി വരെ ആളുകളെ ഈ അപകടങ്ങളിൽ ബാധിക്കുമെന്ന് നിർവചിക്കുന്നു അതിനാൽ മനുഷ്യജീവിതത്തിലും സ്വത്തിലും ഒരുതരം സ്വാധീനം ചെലുത്താനിടയുള്ള ആപത്ത് ദുരന്തത്തെ നിർവചിക്കുക മാത്രമല്ല എത്രപേർ ആ അപകടത്തിന് വിധേയമാകുമ്പോൾ അത് പ്രശ്നമാണ് എന്നാൽ അത് മാത്രം പോരാ അത് എന്ത് ഏത് തരം ആളുകൾ അവരുടെ സ്വഭാവ സവിശേഷതകൾ അവരുടെ സവിശേഷതകൾ ആ ദുരന്തത്തിന് വിധേയരായവർ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ദുരന്തത്തെ നിർവചിക്കാൻ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇത് ഒരു ദുർബലതയാണെന്ന് നമ്മൾ കരുതുന്നു ദുരന്തത്തിന്റെ അളവ് നിർവചിക്കാനുള്ള നിർണായക വ്യവസ്ഥകളിലൊന്നാണ് ദുർബലത ശാരീരികവും സാമൂഹികവും സാമ്പത്തികവും പാരിസ്ഥിതികവുമായ ഘടകങ്ങൾ അല്ലെങ്കിൽ പ്രക്രിയയാൽ നിർണ്ണയിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് അപകടസാധ്യതയെ നമ്മൾ ഇപ്പോൾ നിർവചിക്കുന്നത് അത് ഒരു സമൂഹത്തിന്റെ അപകടസാധ്യത വർദ്ധിപ്പിക്കും അതിനാൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് അപകടത്തിന് കൂടുതൽ സാധ്യതയുള്ളത് ഏത് ഭൂമിശാസ്ത്രപരമായ പ്രദേശം സാമൂഹ്യ സാമ്പത്തിക ക്ലാസ് മുതലായവ ഏത് തരത്തിലുള്ള വീടുകളോ വ്യക്തികളോ ആണ് എന്തുചെയ്യണം ഏത് തരത്തിലുള്ള ശേഷി അല്ലെങ്കിൽ പൊരുത്തപ്പെടുത്തൽ ശേഷി വർദ്ധിപ്പിക്കൽ അല്ലെങ്കിൽ പൊരുത്തപ്പെടുത്തൽ നടപടികൾ നമുക്കു ചെയ്യാൻ കഴിയുന്ന പ്രതിരോധ നടപടികൾ അതിനാൽ ആളുകൾക്ക് എത്രത്തോളം അപകടസാധ്യതയുണ്ടെന്നും ഇവ നിർവചിക്കുന്നു അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ദുർബലതയെ നിർവചിക്കുന്ന വ്യത്യസ്ത വ്യവസ്ഥകളുണ്ട് നേരിടാനുള്ള കഴിവ് പ്രതിരോധം അല്ലെങ്കിൽ പ്രതിരോധം പോലുള്ള സാമൂഹിക ദുർബലത നമുക്കുണ്ട് അല്ലെങ്കിൽ പ്രായം ലിംഗഭേദം വംശീയത ഗാർഹിക തരം എന്നിങ്ങനെയുള്ള ചില സാമൂഹ്യ ശാക്തീകരണം നമുക്ക് ഉണ്ടായിരിക്കാം ഞാൻ പറഞ്ഞതുപോലെ ഒരു സമൂഹം പ്രായമായവർ മാത്രം ഉൾക്കൊള്ളുമ്പോൾ ആ സമൂഹത്തെ ചെറുപ്പക്കാരും ഉള്ളതിനേക്കാൾ കൂടുതൽ അപകടസാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്നു പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് സാമൂഹിക സാമ്പത്തിക അവസരങ്ങൾ രാഷ്ട്രീയ അവസരങ്ങൾ എന്നിവ കുറവായതിനാൽ സ്ത്രീകളെ കൂടുതൽ ദുർബലരായി കണക്കാക്കുന്നു അതിനാൽ പുരുഷ മേധാവിത്വമുള്ള സമൂഹത്തിൽ അവർ കൂടുതൽ ദുർബലരായി കണക്കാക്കപ്പെടുന്നു ഒരു മുഖ്യധാരാ വംശീയ സമൂഹം അല്ലെങ്കിൽ ഭൂരിപക്ഷം വംശീയ സമുദായവും തുറന്നുകാട്ടപ്പെടുമ്പോൾ ഇവ ഏതുതരം വംശീയതയാണ് ദുരന്തങ്ങൾക്ക് വിധേയമാക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ന്യൂനപക്ഷ സമുദായത്തേക്കാളും ന്യൂനപക്ഷ വംശീയ വംശത്തേക്കാളും അവർ ദുർബലരാണ് അതുപോലെ തന്നെ ഇത് ഗാർഹിക തരത്തെ ആശ്രയിച്ചിരിക്കുന്നു സംയുക്ത കുടുംബം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഒരു ദുരന്തത്തിന്റെ സാമൂഹിക ദുർബലതയെ നിർവചിക്കുന്ന ഈ എല്ലാ സാമൂഹിക ചുറ്റുപാടുകളും സാമ്പത്തിക അന്തരീക്ഷമോ ദുർബലതയുടെ സാമ്പത്തിക ഘടകങ്ങളോ പരിഗണിക്കേണ്ടതുണ്ട് അതിലൊന്നാണ് വരുമാനവും ആസ്തിയും ഇൻഷുറൻസും കടങ്ങളും വ്യക്തിയുടെ വരുമാനം എത്രമാത്രം ഉണ്ട് വരുമാനം മാത്രമല്ല അവർക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും വെള്ളപ്പൊക്ക ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അവരെ ബാധിക്കുന്നുവെങ്കിൽ അവഎങ്ങനെ പ്രളയത്തെ ബാധിക്കും അത് ഇൻഷുറൻസിനെ ആശ്രയിച്ചിരിക്കുന്നു കാരണം അവ ബാധിക്കപ്പെടുകയാണെങ്കിൽ അവരുടെ ഉപജീവനമാർഗം തടസ്സപ്പെടും അവർക്ക് അവിടെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് ആ പ്രക്രിയയിൽ നിന്ന് കരകയറാൻ സഹായിക്കും കൂടാതെ അവർക്ക് വായ്പയോ കടങ്ങളോ ഉണ്ടെങ്കിൽ അവയ്ക്ക് ഒരു കണത്തിന്റെ ആഘാതം എത്രത്തോളംഉൾക്കൊള്ളാനാകുമെന്ന് നിർവചിക്കുന്നു ഒരു ദുരന്തം ദുരന്ത സാധ്യത നിർവചിക്കുന്ന ഒരു ദുരന്ത മാതൃക നമുക്കുണ്ട് നമ്മൾ ഇത് പിന്നീട് സംസാരിക്കും എന്നാൽ ഇത് ഒരു റഫറൻസിനായി മാത്രമാണ് ദുരന്തസാധ്യതയുടെ ഭൌതിക ഘടകങ്ങളും ഉണ്ടാകാം ഭൂവിനിയോഗവും ഇതും പ്രധാനമായും ഭൂവിനിയോഗത്തിൽ നിന്നും എഞ്ചിനീയറിംഗ് വാസ്തുവിദ്യാ വീക്ഷണകോണിൽ നിന്നുമാണ് ദുരന്തത്തിന്റെ ഭൌതിക ദുർബലത നിർവചിക്കുന്നതിനും കെട്ടിടം എവിടെയാണുള്ളത് അവയുടെ അവസ്ഥകൾ എന്തൊക്കെയാണെന്നും ഇവയെല്ലാം ദുർബലതയെ നിർവചിക്കുന്നു ചില ആളുകൾ പറയുന്നത് ദോഷകരമായ രീതിയിൽ സ്ഥാപിക്കുക അല്ലെങ്കിൽ തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്ത് ആയിരിക്കുക ചില ആളുകൾ ഇത് ഒരുതരം എക്സ്പോഷർ ആയി കണക്കാക്കാം എന്നാൽ ചില ആളുകൾക്ക് ഇത് ദുർബലതയായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ജനസാന്ദ്രത അളവ് ജനവാസ കേന്ദ്രങ്ങളുടെ വിദൂരത്വം നിർണായകമായ അടിസ്ഥാന സൌ കര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന രൂപകൽപ്പന മെറ്റീരിയൽ നമ്മൾ ഏതുതരം നിർമ്മാണ സാമഗ്രികളാണ് ഉപയോഗിക്കുന്നത് ഇവയെല്ലാം സാമൂഹിക ദുർബലതയുടെ ഭൌതിക ഘടകങ്ങളെ നിർവചിക്കുന്നു വിദ്യാഭ്യാസം പ്രായം ലിംഗഭേദം സാമൂഹിക നില സാമൂഹിക സമത്വം സംസ്കാരം പാരമ്പര്യങ്ങൾ ആരോഗ്യ അവസ്ഥകൾ തുടങ്ങിയ സമൂഹങ്ങളുടെ സമൂഹത്തിന്റെ ക്ഷേമത്തിന്റെ നിലവാരമാണ് ദുർബലതയുടെ സാമൂഹിക ഘടകം എന്നും നമ്മൾ ചർച്ച ചെയ്തതുപോലെ അവയൊക്കെ ജനങ്ങളുടെ ദുർബലതയെ നിർവചിക്കുന്നു കൂടാതെ വ്യക്തി സമൂഹം എന്നിവയുടെ സാമ്പത്തിക സ്ഥിതി വരുമാനം വരുമാന കരുതൽ കടങ്ങൾ ക്രെഡിറ്റുകളിലേക്കുള്ള പ്രവേശനം വായ്പ ഇൻഷുറൻസ് എന്നിവയെല്ലാം സാമ്പത്തിക ദുരന്തങ്ങളെ നിർവചിക്കുന്നു കൂടാതെ പ്രകൃതിവിഭവങ്ങളുടെ അപചയം വിഭവങ്ങളുടെ തകർച്ചയുടെ അവസ്ഥ വിഷവും അപകടകരവുമായ മലിനീകരണ വസ്തുക്കളുടെ എക്സ്പോഷർ പോലുള്ള പാരിസ്ഥിതിക ഘടകങ്ങളും നമുക്കുണ്ട് അതിനാൽ അപകടസാധ്യത എക്സ്പോഷർ ദുർബലത എന്നിവ ഈ 3 ഘടകങ്ങളും ദുരന്തസാധ്യത മനസ്സിലാക്കുന്നതിന് പ്രധാനമാണ് കൂടുതൽ വിശാലമായ വീക്ഷണകോണിൽ ദുരന്തസാധ്യതയെക്കുറിച്ചും നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും പക്ഷേ അപകടം എക്സ്പോഷർ ദുർബലത എന്നിവയാണ് ദുരന്തത്തിന്റെ നിർവചനം അത് ദുരന്തത്തെ നിർവചിക്കുന്നു ഇത് ഐക്യരാഷ്ട്രസഭ നൽകിയ ഔപചാരിക നിർവചനമാണ് കാരണം ദുരന്തം അപകടസാധ്യതാ പ്രക്രിയയുടെ ഒരു പ്രവർത്തനമാണ് ഇത് അപകടങ്ങളുടെ സംയോജനം അപകടസാധ്യതയുടെ അവസ്ഥ അപര്യാപ്തമായ ശേഷി അല്ലെങ്കിൽ അപകടസാധ്യതയുടെ വിപരീത ഫലങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നടപടികൾ എന്നിവയാണ് അതിനാൽ ഒരു ദുരന്തം എന്നത് ഒരു സമൂഹത്തിന്റെ പ്രവർത്തനത്തെ ഗുരുതരമായി തടസ്സപ്പെടുത്തുന്നതാണ് ഇത് വ്യാപകമായ മനുഷ്യ ഭൌതിക സാമ്പത്തിക പാരിസ്ഥിതിക നഷ്ടങ്ങൾക്ക് കാരണമാകുന്നു ഇത് ബാധിത സമൂഹങ്ങൾക്കോ സമൂഹത്തിനോ സ്വന്തം വിഭവങ്ങൾ ഉപയോഗിച്ച് നേരിടാനുള്ള കഴിവിനെ കവിയുന്നു വളരെയധികം നന്ദി